1970 കളിൽ നിക്ളോസ് വർത്ത് പാസ്കൽ എന്ന പ്രോഗ്രാമിംഗ് ഭാഷയുടെ ഉപജ്ഞാതാവ് അൽഗോരിതംസ് പ്ലസ് ഡാറ്റാ സ്ട്രക്ചറുകൾ ഇക്വൽസ് പ്രോഗ്രാം എന്ന പേരിൽ വളരെ നല്ല ഒരു പുസ്തകം എഴുതി അതിന്റെ ശീർഷകം തന്നെ ഫലപ്രദമായ പ്രോഗ്രാമുകളുടെ ഘടകങ്ങളായ അൽഗോരിതം ഡാറ്റ ഘടന എന്നിവയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു ഇതുവരെ അൽഗോരിതം നമ്മൾ വിശദമായി കണ്ടു ഇപ്പോൾ ചില പ്രത്യേക ഡാറ്റാ സ്ട്രക്ച്ചഴ്സ് അടുത്തറിയാം പൈത്തണിലേക്ക് നിർമ്മിച്ചിരിക്കുന്ന ഡാറ്റാ സ്ട്രക്ച്ചഴ്സ് ആരംഭിച്ചത് മൂല്യങ്ങളുടെ ശ്രേണികളായ അറേകളും ലിസ്റ്റുകളും ഉപയോഗിച്ചാണ് പ്രധാന കീ വാല്യൂ പെയേഴ്സ് ആയ ഡിക്ഷ്നറി വിവിധതരം വിവരങ്ങൾ പരിപാലിക്കുന്നതിന് വളരെ ഉപയോഗപ്രദമാണെന്ന് നമ്മൾ കണ്ടു പൈത്തണിൽ ലഭ്യമായ മറ്റൊരു ബിൽട്ട് ഇൻ ഡാറ്റാ ടൈപ്പ് സെറ്റ് ആണ് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റുകൾ ഇല്ല എന്നതൊഴിച്ചാൽ സെറ്റ് ഒരു ലിസ്റ്റ് പോലെയാണ് പൈത്തണിൽ ഒരു സെറ്റ് എഴുതുന്നതിനുള്ള മാർഗ്ഗം ഇതുപോലുള്ള ബ്രേസുകളുള്ള ഒരു ലിസ്റ്റ് എഴുതുക എന്നതാണ് ഇവിടെ കളേഴ്സ് എന്ന നാമവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചുവപ്പ് കറുപ്പ് ചുവപ്പ് പച്ച എന്നീ മൂല്യങ്ങളുടെ ലിസ്റ്റ് എഴുതി ഇത് സജ്ജീകരിക്കുന്ന സമയത്ത് നമ്മൾ ചുവപ്പ് ആവർത്തിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധിക്കുക പക്ഷേ ഇത് ഒരു സെറ്റ് ആയതിനാൽ ഈ ആവർത്തിച്ച് വന്ന ചുവപ്പ് സ്വപ്രേരിതമായി നീക്കംചെയ്യപ്പെടും കളേഴ്സ് എന്ന നെയിം അച്ചടിക്കുകയാണെങ്കിൽ നമുക്ക് കറുപ്പ് ചുവപ്പ് പച്ച എന്നീ പട്ടിക ലഭിക്കും ഇപ്പോൾ ശൂന്യമായ ബ്രേസ് നൊട്ടേഷൻ ഇതിനകം ഉപയോഗിച്ചിരിക്കുന്നതിനാൽ ശൂന്യമായ ഡിക്ഷ്നറി വിനായി ഒരു ശൂന്യമായ സെറ്റ് സൃഷ്ടിക്കണമെങ്കിൽ നമ്മൾ സെറ്റ് ഫംഗ്ഷനെ ഇനിപ്പറയുന്ന രീതിയിൽ വിളിക്കണം നമ്മൾ പറയുന്നു കളേഴ്സ് ഈക്വൽ റ്റു ആർഗ്യുമെന്റുകളില്ലാതെ ഉള്ള സെറ്റ് ലിസ്റ്റുകളും മറ്റ് ഡാറ്റാ സ്ട്രക്ചറുകളും പോലെ ഇൻ ഉപയോഗിച്ച് മെമ്പർഷിപ് പരിശോധിക്കാം മുമ്പത്തെ ലിസ്റ്റുകളിൽ ചുവപ്പ് കറുപ്പ് പച്ച എന്നീ നിറങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് ഇപ്പോൾ കറുപ്പ് ആ നിറങ്ങളിൽ ഉണ്ടോ എന്ന് ഇൻ ഉപയോഗിച്ച് നമ്മൾ ചോദിക്കുന്നു അപ്പോൾ റിട്ടേൺ മൂല്യം ട്രൂ ആണ് പൊതുവേ നമുക്ക് സെറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഏത് ലിസ്റ്റും ഒരു സെറ്റിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും സെറ്റിൽ ആർഗ്യുമെന്റ്സ് ഒന്നും നൽകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ശൂന്യമായ സെറ്റ് ലഭിക്കുമെന്ന് നമ്മൾ കണ്ടു പക്ഷേ നമ്മൾ ഈ 13214 ഡ്യൂപ്ലിക്കേറ്റുകൾ ഉള്ള ഒരു ലിസ്റ്റ് നെയിം നമ്പറുകളിലേക്ക് നൽകുകയാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റുകൾ നീക്കം ചെയ്ത നമുക്ക് ഒരു പട്ടിക ലഭിക്കുകയും ചെയ്യും കാരണം അത് ഒരു സെറ്റ് ആണ് നമുക്ക് 0 1 2 3 4 അക്കങ്ങളുടെ ഒരു സെറ്റ് ലഭിക്കും സെറ്റ് അച്ചടിച്ച് വരുന്ന ക്രമം നിങ്ങൾ നൽകിയ ക്രമം തന്നെ ആയിരിക്കേണ്ടതില്ലെന്ന് വീണ്ടും ശ്രദ്ധിക്കുക ഇത് ഒരു ഡിക്ഷ്നറി സെറ്റ് പോലെയാണ് ഡ്യൂപ്ലിക്കേറ്റുകൾ മുതലായവ ഇല്ലെന്ന് ഉറപ്പാക്കുന്ന ഇൻേറണൽ സ്റ്റോറേജ് ആണിത് സെറ്റിലെ ഘടകങ്ങളുടെ ക്രമത്തെക്കുറിച്ച് നമ്മൾ ഒന്നും കരുതരുത് ഒരു സവിശേഷത ഒരു സ്ട്രിംഗ് തന്നെ പ്രധാനമായും അക്ഷരങ്ങളുടെ ഒരു ലിസ്റ്റ് ആണ് നമ്മൾ ഒരു സെറ്റിന് ഒരു സ്ട്രിംഗ് നൽകിയാൽ അത് സെറ്റ് ഫംഗ്ഷൻ ഉണ്ടാക്കുന്നു തുടർന്ന് ഇത് ഈ സെറ്റിൽ നിന്നുള്ള വ്യക്തിഗത അക്ഷരങ്ങൾ അടങ്ങിയ ഒരു സെറ്റ് നിർമ്മിക്കുന്നു സെറ്റ് ഫംഗ്ഷന് ഈ സ്ട്രിംഗ് banana എന്ന് നൽകിയാൽ സെറ്റിൽ ഡ്യൂപ്ലിക്കേറ്റുകൾ ഇല്ലാതെ നമുക്ക് a n b എന്നീ മൂന്ന് വ്യക്തിഗത അക്ഷരങ്ങൾ ലഭിക്കും ഗണിതശാസ്ത്രത്തിലെ സെറ്റുകൾ പോലെ ഇത് പോലുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങളെ സെറ്റുകൾ പിന്തുണയ്ക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു 1 നും 11 നും ഇടയിലുള്ള എല്ലാ ഒറ്റ സംഖ്യകളുടെ സെറ്റ് ആണ് ഓഡ് നമ്പർ എന്ന് കരുതുക 1 മുതൽ 11 വരെ അതായത് 2 നും 11 നും ഇടയിലുള്ള എല്ലാ പ്രൈം നമ്പറുകളുടെയും സെറ്റ് ആണ് പ്രൈം നമ്പർ നമ്മൾ മുമ്പ് കണ്ടതുപോലെ ഈ സെറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു ഈ വെർട്ടിക്കൽ ബാർ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് രണ്ട് സെറ്റുകളുടെയും യൂണിയൻ ലഭിക്കും ഓഡ് യൂണിയൻ പ്രൈം എന്നാൽ ഓഡ് അല്ലെങ്കിൽ പ്രൈമിലുള്ള ഘടകങ്ങളാണ് ഇവിടെ നിന്ന് 1 കിട്ടി താഴെ നിന്ന് 2 കിട്ടി അങ്ങിനെ 3 5 7 9 11 എന്നിവ നമുക്ക് ലഭിക്കും രണ്ട് സെറ്റുകളിലും എല്ലാ ഘടകങ്ങളും നമുക്ക് ലഭിക്കുന്നു പക്ഷേ ഡ്യൂപ്ലിക്കേറ്റുകൾ ഇല്ലാതെ രണ്ട് സെറ്റുകളുടെ ഇന്റർസെക്ഷൻ നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇത് സൂചിപ്പിക്കാൻ നമ്മൾ ആമ്പർസാൻഡ് ഉപയോഗിക്കുന്നു രണ്ട് സെറ്റുകളിലും ഉള്ള ഒറ്റ സംഖ്യയും പ്രൈമും ആയ സംഖ്യകൾ ലഭിക്കും ഇവിടെ ഈ സാഹചര്യത്തിൽ 3 5 7 11 എന്നിവ നമുക്ക് ലഭിക്കും ഈ നമ്പറുകൾ അച്ചടിക്കുന്ന ക്രമം എങ്ങിനെ വേണമെങ്കിലും ആകാം എന്ന് വീണ്ടും ശ്രദ്ധിക്കുക സെറ്റ് ഡിഫ്റെൻസ് എന്നാൽ ഓഡ് ആയതും എന്നാൽ പ്രൈമിൽ ഇല്ലാത്തതുമായ ഘടകങ്ങൾ ആവശ്യപ്പെടുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രൈം അല്ലാത്ത ഒറ്റ സംഖ്യകൾ ഈ പ്രത്യേക ശേഖരത്തിൽ 1 9 എന്നിവ പ്രൈം അല്ലാത്ത ഒറ്റ സംഖ്യകളുടെ ഉദാഹരണങ്ങളാണ് അവസാനമായി രണ്ട് സെറ്റുകളിലുമുള്ള ഘടകങ്ങൾ ശേഖരിക്കുന്ന യൂണിയനിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഒരു എക്സ്ക്ലൂസീവ് ചെയ്യാൻ കഴിയും അതായത് രണ്ട് സെറ്റുകളിൽ മാത്രം വരുന്ന ഘടകങ്ങൾ എടുക്കുന്നു നമ്മൾ ഈ കാരറ്റ് ചിഹ്നം ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യ സെറ്റിൽ നിന്ന് 1 ഉം 9 ഉം രണ്ടാമത്തെ സെറ്റിൽ നിന്ന് 2 ഉം ലഭിക്കും കാരണം രണ്ട് സെറ്റുകളിലും 3 5 7 11 എന്നിവ ഉണ്ട് നമ്മൾ സെറ്റുകളെക്കുറിച്ച് ഇനി കൂടുതൽ സംസാരിക്കില്ല എന്നാൽ അവ ഈ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉപയോഗിച്ച് ഡ്യൂപ്ലിക്കേറ്റുകൾ ഇല്ലാതെ മൂല്യങ്ങളുടെ ശേഖരം ട്രാക്കുചെയ്യുന്നതിന് നിങ്ങൾക്ക് വിവിധ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയും നമുക്ക് സീക്വൻസുകൾ കൈകാര്യം ചെയ്യാനുള്ള വ്യത്യസ്ത വഴികൾ നോക്കാം നമ്മൾ കണ്ട ഒരു ലിസ്റ്റ് ഒരു സീക്വൻസാണ് അതിൽ നമുക്ക് എല്ലായിടത്തും മൂല്യങ്ങൾ എളുപ്പത്തിൽ ചേർക്കാനും ഇല്ലാതാക്കാനും കഴിയും ഇപ്പോൾ നമ്മൾ ഇതിൽ ചില നിയന്ത്രണം അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേക ഡാറ്റാ സ്ട്രക്ച്ചഴ്സ് ലഭിക്കുന്നു അതിലൊന്ന് ഒരു സ്റ്റാക്ക് ആണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ലിസ്റ്റ് ആണ് ഒരു സ്റ്റാക്ക് നമ്മൾ അവസാനമായി ചേർത്ത ഘടകം മാത്രമേ ഒരു സ്റ്റാക്കിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയൂ സാധാരണയായി രണ്ട് ഓപ്പറേഷൻസ് നൽകിയാണ് ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഒരു ഘടകം ഒരു സ്റ്റാക്കിലേക്ക് കയറ്റുമ്പോൾ അത് സ്റ്റാക്ക് അതിന്റെ അവസാനം ചേർക്കുകയും നമ്മൾ ഒരു സ്റ്റാക്ക് പോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അവസാനം ചേർത്ത മൂല്യം ലഭിക്കുകയും ചെയ്യും ഇപ്പോൾ ബിൽറ്റ് ഇൻ പൈത്തൺ ലിസ്റ്റ് ഉപയോഗിച്ച് ഇത് നടപ്പിലാക്കാൻ എളുപ്പമാണ് സ്റ്റാക്കുകൾ വലതുവശത്തേക്ക് വളരുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം നമ്മൾ വലതുവശത്തേക്ക് തള്ളുകയും വലതുവശത്ത് നിന്ന് പോപ്പ് ചെയ്യുകയും ചെയ്യുന്നു പുഷ് എസ് എക്സ് എന്നാൽ എക്സ്എസ് നോട് കൂട്ടിച്ചേർക്കപ്പെടും നമുക്ക് ലിസ്റ്റുകൾക്കുവേണ്ടിയുള്ള ബിൽറ്റ് ഇൻ ഫങ്ങ്ഷൻ അപ്പെൻഡ് ഉപയോഗിക്കുവാൻ സാധിക്കുന്നു s ഡോട്ട് APPEND X എന്നാൽ x ചേർക്കപ്പെടും ലിസ്റ്റുകൾക്കുവേണ്ടിയുള്ള മറ്റൊരു ബിൽറ്റ് ഇൻ ഫങ്ങ്ഷൻ ആണ് പോപ്പ് അത് അവസാന ഘടകം എടുത്ത് നമുക്ക് നൽകുന്നു s ഡോട്ട് പോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ s ഒരു ലിസ്റ്റാണ് മാത്രമല്ല സ്റ്റാക്കിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം ഇവിടെ നമുക്ക് ലഭിക്കും ആവർത്തന ഫംഗ്ഷൻ കോളുകളുടെ ട്രാക്ക് സൂക്ഷിക്കാൻ ഒരു സ്റ്റാക്ക് സാധാരണയായി ഉപയോഗിക്കുന്നു അവിടെ നമുക്ക് തുടർച്ചയായ ഫംഗ്ഷനുകൾ ഉണ്ട് അതിലൂടെ പോയി തുടർന്ന് ഇതിന് മുമ്പ് വിളിച്ച അവസാന ഫംഗ്ഷനിലേക്ക് മടങ്ങാനും കഴിയും പ്രത്യേകിച്ച് നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്റ്റാക്ക് പോലെ ഉണ്ടാകും നമ്മൾ രാജ്ഞിയെ വക്കുമ്പോഴും നീക്കം ചെയ്യുമ്പോഴും നമ്മൾ അത് ഫലപ്രദമായി ചെയ്യേണ്ടത് ഇങ്ങനെയാണ് പുതിയ രാജ്ഞിയെ സ്റ്റാക്കിലേക്കു പുഷ് ചെയ്യുക അങ്ങിനെ ചെയ്യുമ്പോൾ ബാക്ക് ട്രാക്കിങ് സമയത്ത് അത് പോപ് ചെയ്തു അവസാന നീക്കം പഴയപടിയാക്കാൻ എളുപ്പത്തിൽ കഴിയും ഒരു ലിസ്റ്റ് ഉപയോഗിക്കുന്നതിനുള്ള അച്ചടക്കമുള്ള മറ്റൊരു മാർഗം ഒരു ക്യൂ ആണ് സ്റ്റാക്ക് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് എന്നാൽ ക്യു ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് രീതിയിൽ ആണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരു അറ്റത്ത് ചേർക്കുന്നു മറ്റൊരു അറ്റത്ത് നമ്മൾ നീക്കംചെയ്യുന്നു ഇത് യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾ കാണുന്ന ഒരു ക്യൂ പോലെയാണ് അവിടെ നിങ്ങൾ പിന്നിൽ ക്യൂവിൽ ചേരുന്നു നിങ്ങളുടെ ടേൺ വരുമ്പോൾ നിങ്ങൾ ക്യൂവിന്റെ മുൻപിൽ ആയിരിക്കും തുടർന്ന് നിങ്ങൾക്ക് സേവനം ലഭിക്കും ആഡ് q എന്നാൽ ക്യൂവിന്റെ പിൻഭാഗത്ത് x ചേർക്കുകയും റിമൂവ് q എന്നാൽ q ന്റെ മുൻപിലുള്ളത് നീക്കംചെയ്യുകയും ചെയ്യും നമുക്ക് വീണ്ടും പൈത്തൺ ലിസ്റ്റുകൾ ഉപയോഗിക്കാം ഒരു ലിസ്റ്റ് ഒരു ക്യു വിനെ പ്രതിനിധീകരിക്കുന്നു ക്യൂവിന്റെ ഹെഡ് വലതുവശത്താണ് ഇടതുവശത്ത് പിൻ ഭാഗം ആണ് മുമ്പത്തെപ്പോലെ എളുപ്പത്തിൽ നമുക്ക് പോപ്പ് ഉപയോഗിക്കാമെന്നതിനാലാണിത് പക്ഷേ ഇപ്പോൾ ക്യുവിൽ ചേർക്കാൻ താൽപ്പര്യപ്പെടുമ്പോൾ ഇൻസെർട്ട് ഫങ്ഷൻ ഉപയോഗിക്കാം നമ്മൾ ഇത് വ്യക്തമായി കണ്ടിട്ടില്ല പക്ഷേ നിങ്ങൾ ഡോക്യുമെന്റേഷനിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കാണാൻ കഴിയും എനിക്ക് ഒരു ലിസ്റ്റ് എൽ ഉണ്ട് ഞാൻ രണ്ടു ആർഗ്യുമെന്റ്സ് jx ചേർക്കുന്നു ഇതിന്റെ അർത്ഥം ഇതാണ് ജെയുടെ മുമ്പിൽ മൂല്യം ജെ വെച്ചു ജെ യുടെ സ്ഥാനത്തിന് മുമ്പ് മൂല്യം X ഇട്ടു ഇപ്പോൾ പൊസിഷൻ 0 യിൽ ഇട്ടാൽ ഈ ലിസ്റ്റിലെ എല്ലാ ഘടകങ്ങൾക്കും മുമ്പായി എന്തെങ്കിലും ഇടുക എന്നാണ് ആഡ് qq കോമാ x എന്നാൽ q ഡോട്ട് ഇൻസേർട്ട് 0 കോമ x എന്നതിന് തുല്യമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ x നെ തുടക്കത്തിലേക്കു തള്ളുക എനിക്ക് ഈ ഫോം വി1 വി 2 എന്നിങ്ങനെ ഉള്ള ഒരു ക്യു ഉണ്ട് എങ്കിൽ ഈ ഇൻസെർട്ട് ഫംഗ്ഷൻ ഒരു X നെ തുടക്കത്തിൽ ചേർക്കും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ നൊട്ടേഷൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം ലിസ്റ്റിന്റെ അവസാന ഘടകം നീക്കംചെയ്യാൻ നമുക്ക് പോപ്പ് ഉപയോഗിക്കാം എന്നതാണ് ബിൽറ്റ് ഇൻ ലിസ്റ്റുകൾ ഉപയോഗിച്ച് ക്യൂകളും സ്റ്റാക്കുകളും എളുപ്പത്തിൽ നടപ്പിലാക്കാം സെർച്ച് സ്പേസിലൂടെ ആസൂത്രിതമായി പര്യവേക്ഷണം ചെയ്യുക എന്നതാണ് ക്യൂവിന്റെ ഒരു സാധാരണ ഉപയോഗം നമുക്ക് ഒരു ചതുരാകൃതിയിലുള്ള m ക്രോസ് n ഗ്രിഡ് ഉണ്ടെന്നും നമുക്ക് ഒരു നൈറ്റ് ചെസ്സിലെ കുതിര ഉണ്ടെന്നും സങ്കൽപ്പിക്കുക ഒരു നൈറ്റ് തുടക്കത്തിൽ sx കോമ sy സ്ഥാനത്ത് ആണ് ഈ സാഹചര്യത്തിൽ നൈറ്റിനെ ഈ ചുവന്ന ചിഹ്നം സൂചിപ്പിക്കുന്നു ഇതാണ് നമ്മുടെ നൈറ്റ് ഇപ്പോൾ നൈറ്റ് മൂവ് ചെയ്യുന്നു നിങ്ങൾക്ക് ചെസ്സ് പരിചിതമാണ് എങ്കിൽ ഓർക്കുക നൈറ്റ് രണ്ട് സ്ക്വയറുകൾ മുകളിലേക്കും ഒരു ചതുരം ഇടത്തേക്കും ആണ് നീക്കുക ഇതൊരു നൈറ്റ് നീക്കമാണ് അതുപോലെ ഇത് ഒരു നൈറ്റ് നീക്കമാണ് അതുപോലെ ഇതും ഒരു നൈറ്റ് മൂവ് ആണ് ഒരു ദിശയിലേക്ക് രണ്ട് സ്ക്വയറുകളും തുടർന്ന് അതിനു കുറുകെ ഒരു ചതുരത്തിലേക്ക് നീങ്ങുന്നതും നൈറ്റ് നീക്കത്തിൽ ഉൾപ്പെടുന്നു ഈ പ്രാരംഭ സ്ഥാനത്ത് നിന്ന് എത്തിച്ചേരാവുന്ന എല്ലാ സ്ഥാനങ്ങളും ഇവയാണ് അവിടെ നൈറ്റ് മൂവ് എട്ട് എണ്ണം ഉണ്ട് നമുക്ക് ചുവന്ന ആരംഭ സ്ക്വയർ ഉണ്ട് ടാർഗെറ്റ് സ്ക്വയറിനെ സൂചിപ്പിക്കുന്ന ഒരു പച്ച ഡയമണ്ട് ഇനി ഇതാണ് നമ്മുടെ ചോദ്യം ചുവന്ന ചതുരത്തിൽ നിന്ന് പച്ച ഡയമണ്ടിലേക്ക് കുറെ നൈറ്റ് നീക്കങ്ങൾ ഉപയോഗിച്ച് എനിക്ക് ചാടാൻ കഴിയുമോ ഇത് ചെയ്യുന്നതിനുള്ള ഒരു മാർഗം ഒരാൾക്ക് എത്തിച്ചേരാവുന്ന സ്ക്വയറുകളുടെ ലിസ്റ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ആദ്യ ഘട്ടത്തിൽ എത്തിച്ചേരാവുന്ന ഈ 8 സ്ക്വയറുകളും നമ്മൾ പരിശോധിക്കാം നമ്മൾ പറഞ്ഞതുപോലെ ആരംഭ സ്ഥാനത്ത് നിന്ന് ഒരു നീക്കം ഉപയോഗിച്ച് ഒരു ഘട്ടത്തിൽ എത്തിച്ചേരാൻ നമുക്ക് ലഭ്യമായ സ്ക്വയറുകളെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു ഇപ്പോൾ അവയിൽ ഒരെണ്ണം മുകളിൽ ഇടത് വശത്ത് തിരഞ്ഞെടുത്ത് അവിടെ നിന്ന് നമുക്ക് എത്തിച്ചേരാനാകുന്നവ പര്യവേക്ഷണം ചെയ്യാം നമ്മൾ ഈ സ്ക്വയറിൽ ആരംഭിക്കാം ഇപ്പോൾ അതിന്റെ അയൽക്കാരെ നോക്കിയാൽ അതിന്റെ ചില അയൽക്കാർ ഗ്രിഡിന് പുറത്താണ് നമ്മൾ അവയെ കളയുന്നു നമ്മൾ ഈ അയൽക്കാരെ മാത്രമേ ഗ്രിഡിനുള്ളിൽ സൂക്ഷിക്കുന്നുള്ളൂ അവരിൽ ഒരാൾ നമ്മൾ ആരംഭിച്ച സ്ഥലത്തേക്ക് നമ്മളെ തിരികെ കൊണ്ടുവരുന്നു ഇപ്പോൾ നമുക്ക് മറ്റൊരു സ്ക്വയർ തിരഞ്ഞെടുക്കാം ഈ സ്ക്വയർ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം നോക്കുമ്പോൾ അത് വീണ്ടും 8 അയൽവാസികളെ ഉണ്ടാക്കി എന്നാൽ ഈ അയൽക്കാരിൽ ചിലർ മഞ്ഞ അയൽവാസികളെ ഓവർലാപ്പ് ചെയ്യുന്നു മഞ്ഞ പച്ച എന്നിവയുടെ സംയുക്ത ഷേഡിംഗ് ഉപയോഗിച്ചാണ് ഞാൻ ഇത് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും അവ രണ്ടും ആരംഭ സ്ഥാനത്ത് നിന്ന് ഇവിടെ എത്തിച്ചേർന്നതിനാൽ ആണ് തീർച്ചയായും ആരംഭ പോയിന്റ് അവ രണ്ടിൽ നിന്നും എത്തിച്ചേരുന്നു ആരംഭ പോയിന്റ് മഞ്ഞയും പച്ചയും നിറത്തിലാണ് അടയാളപ്പെടുത്തുന്ന പ്രക്രിയയിൽ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഈ സ്ക്വയറുകൾ ചിലപ്പോൾ നമ്മൾ സ്ക്വയറിനെ രണ്ടുതവണ അടയാളപ്പെടുത്തുന്നു നമ്മൾ ഇത് ശരിയായി ചെയ്യുന്നുവെന്നും ഒരു ലൂപ്പിലേക്ക് കടക്കില്ലെന്നും ഉറപ്പാക്കുന്നതിന് ഒരു വ്യവസ്ഥാപരമായ മാർഗം ഉണ്ടായിരിക്കണം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇനിപ്പറയുന്നവയാണ് ആദ്യ ഘട്ടത്തിൽ ആരംഭ പോയിന്റിൽ അതായത് sx കോമ sy യിൽ നിന്ന് ഒരു നീക്കത്തിൽ എത്തിച്ചേരാവുന്ന എല്ലാ സ്ക്വയറുകളെയും അടയാളപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നു തുടർന്ന് x 1 ൽ നിന്ന് ഒരു നീക്കത്തിൽ എത്തിച്ചേരാവുന്ന എല്ലാ സ്ക്വയറുകളെയും അടയാളപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നു ഇത് x 2 എന്ന് കരുതുക തുടർന്ന് x 2 ൽ നിന്ന് ഒരൊറ്റ നീക്കത്തിലൂടെ എത്തിച്ചേരാവുന്ന എല്ലാ സ്ക്വയറുകളും നമ്മൾ നോക്കും ഇതിനെ x 3 എന്ന് വിളിക്കുക ഇപ്പോൾ പ്രശ്നങ്ങളിലൊന്ന് x 1 ഇൽ നിന്ന് ഒരു നീക്കത്തിൽ x2 ൽ എത്താൻ കഴിയുമെന്നതിനാൽ x 2 ൽ നിന്ന് എത്താൻ കഴിയുന്ന സ്ക്വയറുകളിൽ x 1 ലെ സ്ക്വയറുകൾ ഉൾപ്പെടും നമ്മൾ ഇതിനകം അടയാളപ്പെടുത്തിയ ചതുരങ്ങളിൽ തന്നെ ഈ സർക്കിളുകളിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി പര്യവേക്ഷണം തുടരില്ലെന്ന് എങ്ങനെ ഉറപ്പാക്കും ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊരു കാര്യം ഇത് എപ്പോൾ നിർത്തണമെന്ന് നമുക്ക് എങ്ങനെ അറിയാം തീർച്ചയായും നമ്മൾ ടാർഗെറ്റ് സ്ക്വയറിനായി തിരയുകയാണെന്ന് നമുക്കറിയാമെന്നതിനാൽ ടാർഗെറ്റ് സ്ക്വയർ എപ്പോഴെങ്കിലും അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വച്ച് നിർത്താനാകും മറുവശത്ത് മറ്റൊരു സാധ്യതയുണ്ട് ടാർഗറ്റ് സ്ക്വയർ എത്താനാവില്ല ഈ സാഹചര്യത്തിൽ നമ്മൾ ഫലമില്ലാതെ മുന്നോട്ട് പോകുന്നുവെന്നും നമ്മൾ ഒരിക്കലും ടാർഗെറ്റ് സ്ക്വയറിലെത്താൻ പോകുന്നില്ലെന്നും തിരിച്ചറിയാതെ തന്നെ നമ്മൾ പര്യവേക്ഷണം തുടരുകയാണ് എപ്പോൾ നിർത്തണമെന്ന് നമുക്കെങ്ങിനെ അറിയാം ഒരു ക്യൂ ഇതിന് വളരെ ഉപയോഗപ്രദമാണ് നമ്മൾ എന്തു ചെയ്യും എന്ന് ചോദിച്ചാൽ ഏതു സമയത്തും സെർച്ച് ചെയ്യേണ്ട സെല്ലുകളുടെ ഒരു ക്യൂ നമ്മൾ നിലനിർത്തുന്നു തുടക്കത്തിൽ ക്യൂവിൽ sx കോമ s y എന്ന ആരംഭ നോഡ് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ ഓരോ ഘട്ടത്തിലും നമ്മൾ ക്യൂവിന്റെ ഹെഡ് നീക്കംചെയ്യുകയും അതിന്റെ അയൽക്കാരെ പര്യവേക്ഷണം ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ നമ്മൾ അതിന്റെ അയൽക്കാരെ പര്യവേക്ഷണം ചെയ്യുമ്പോൾ നമ്മൾ ഈ അയൽക്കാരെ അടയാളപ്പെടുത്തുന്നു അവയിൽ ചിലത് ഇതിനകം അടയാളപ്പെടുത്തിയിരിക്കാം അതുകൊണ്ട് നമ്മൾ axay എന്നിവ നോക്കും ക്യൂവിൽ നിന്ന് നീക്കം ചെയ്ത ഘടകം നോക്കും കൂടാതെ നമ്മൾ ഒരു സ്റ്റെപ്പിൽ എത്തിച്ചേരാനാകുന്ന സ്ക്വയറുകളിലേക്കും നോക്കും എത്തിച്ചേരാനാകുന്നത് എന്നതിനർത്ഥം എനിക്ക് ഒരു നൈറ്റ് മൂവ് ചെയ്ത് അവിടേക്ക് പോകാം ഈ നൈറ്റ് നീക്കത്തിന്റെ ഫലം എന്നെ ഈ ബോർഡിൽ നിന്ന് പുറത്താക്കില്ല ax ൽ നിന്നും ay യിൽ നിന്നും എത്തിച്ചേരാവുന്ന ഈ സ്ക്വയറുകളെല്ലാം ഞാൻ അടയാളപ്പെടുത്തുന്നു അവയിൽ ചിലത് ഇതിനകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവയിൽ ചിലത് ഇപ്പോൾ അടയാളപ്പെടുത്തി അങ്ങനെ ഇനി ഞാൻ ചെയ്യുന്നത് പുതുതായി അടയാളപ്പെടുത്തിയവായെ ഇവയെ ക്യൂവിലേക്ക് ചേർക്കുക എന്നതാണ് അവിടെ നിന്ന് എത്താൻ കഴിയുന്ന സ്ക്വയറുകൾക്കായി ഇപ്പോൾ ഈ സ്ക്വയറുകളും പര്യവേക്ഷണം ചെയ്യേണ്ടതുണ്ട് ഒരിക്കൽ എത്തിച്ചേർന്ന ഒരു സ്ക്വയർ ഒരിക്കലും ക്യൂവിൽ വീണ്ടും ചേർക്കില്ലെന്നു ഇത് ഉറപ്പുനൽകുന്നു അവസാനമായി ക്യൂ ശൂന്യമാകുന്നതുവരെ നമ്മൾ ഇത് തുടരുന്നു ക്യൂ ശൂന്യമായിരിക്കുമ്പോൾ ചേർക്കുന്നതിനുമുമ്പ് അടയാളപ്പെടുത്താത്ത പുതിയ സ്ക്വയറുകളൊന്നും ചേർത്തിട്ടില്ല അതായത് കൂടുതലായി പര്യവേക്ഷണം ചെയ്യാനൊന്നുമില്ല മാത്രമല്ല നമ്മൾ സന്ദർശിക്കാൻ കഴിയുന്ന എല്ലാ സ്ക്വയറുകളിലേക്കും നമ്മൾ പോയി ഇതിനുള്ള ചില പൈത്തൺ സ്യൂഡോ കോഡ് ഇതാണ് നമ്മൾ sx sy മുതൽ tx t y വരെ പര്യവേക്ഷണം ചെയ്യാൻ പോകുന്നു ഗ്രിഡിലെ വരികളുടെയും നിരകളുടെയും എണ്ണം സൂചിപ്പിക്കുന്ന m n എന്നീ മൂല്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ടെന്ന് നമ്മൾ അനുമാനിക്കുന്നു നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയ അറേ 0 ആയി വക്കുക ഈ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ നൊട്ടേഷൻ ഓർമ്മിക്കുക ഇത് 0 ഫോർ i ഇൻ റേഞ്ച് n നമുക്ക് n 0 കളുടെ ഒരു ലിസ്റ്റ് നൽകുന്നു ഇപ്പോൾ m ടൈംസ് ഫോർ j ഇൻ റേഞ്ച് m ചെയ്യുന്നു എനിക്ക് n പൂജ്യങ്ങളുള്ള ഓരോ ബ്ലോക്കും അടങ്ങുന്ന m ബ്ലോക്കുകളുടെ ലിസ്റ്റ് ലഭിക്കും ഇത് പറയുന്നു തുടക്കത്തിൽ ഒന്നും അടയാളപ്പെടുത്തിയിട്ടില്ലെന്ന് ഇപ്പോൾ നമ്മൾ ആരംഭ നോഡ് അടയാളപ്പെടുത്തുന്നുവെന്നും ക്യൂവിൽ നിന്ന് ആരംഭ നോഡ് ചേർക്കുന്നുവെന്നും പറഞ്ഞ് നമ്മൾ കാര്യം സജ്ജമാക്കി ഇപ്പോൾ ക്യൂ ശൂന്യമല്ല നമ്മൾ ക്യൂവിൽ നിന്ന് ഒരു ഘടകം പോപ്പ് ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ sx sy പുറത്തുവരും ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടില്ലാത്ത ഒരു ഫംഗ്ഷൻ ഉണ്ട് അത് എനിക്ക് ax ay എന്നിവയിൽ നിന്ന് എത്താൻ കഴിയുന്ന അയൽവാസികളെയെല്ലാം പരിശോധിച്ച് എനിക്ക് എത്താൻ കഴിയുന്ന അത്തരം ജോഡി നോഡുകളുടെ ഒരു ലിസ്റ്റ് തരും ഓരോ അയൽക്കാരനും nxny എന്നിവ അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഞാൻ അത് അടയാളപ്പെടുത്തുകയും ക്യൂവിലേക്ക് ചേർക്കുകയും ചെയ്യും പര്യവേക്ഷണം ചെയ്യുന്നതിനായി ഞാൻ ക്യൂവിൽ നിന്ന് ഒരു ഘടകം പുറത്തെടുക്കുന്നു അടയാളപ്പെടുത്താത്ത അയൽവാസികളിലേക്ക് നോക്കുന്നു ഞാൻ അവ അടയാളപ്പെടുത്തി അവയെ ക്യൂവിൽ തിരികെ വയ്ക്കുന്നു ഒടുവിൽ ഈ സാഹചര്യത്തിൽ ഞാൻ മധ്യത്തിൽ ഉള്ള tx അല്ലെങ്കിൽ tyഅടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും പോകുന്നില്ല എപ്പോഴാണോ കൃത്യമായ സ്ക്വയറുകളുടെ ഒരു സെറ്റ് ലഭിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പ്രക്രിയ നിർത്തുന്നു ടാർഗെറ്റ് നോഡ് tx ty ൽ അടയാളപ്പെടുത്തിയ മൂല്യം ഞാൻ തിരികെ നൽകുമോ എന്ന് അവസാനം അറിയാം ഞാൻ അതിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് 1 തിരികെ നൽകും അത് ശരിയാണ് അത് എത്തിയില്ലെങ്കിൽ അത് 0 നൽകുന്നു അത് തെറ്റാണ് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം നോക്കാം ഇവിടെ നമുക്ക് മൂന്ന് ബൈ മൂന്ന് ഗ്രിഡ് ഉണ്ട് സെല്ലുകൾ 1 0 1 2 0 1 2 എന്നിവയാണെന്ന് ഓർമ്മിക്കുക നാമകരണ കൺവെൻഷന്റെ അടിസ്ഥാനത്തിൽ മുകളിലെ സെന്റർ സ്ക്വയറിൽ നിന്ന് ആരംഭിക്കാൻ തുടങ്ങുന്നു ഇതാണ് നമ്മുടെ ഉറവിടം ഈ കേന്ദ്രമാണ് നമ്മുടെ ലക്ഷ്യം ഈ അടയാളങ്ങളെല്ലാം മായ്ച്ചുകളയുകയും നമ്മൾ പ്രതീക്ഷിക്കുന്നതുപോലെ ഇത് സജ്ജീകരിക്കുകയും ചെയ്യാം തുടക്കത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ക്യൂവിൽ ഒരു സോഴ്സ് നോഡാണ് നമ്മൾ ഗ്രിഡിൽ സോഴ്സ് നോഡ് അടയാളപ്പെടുത്തുന്നു അത് ചുവന്ന അടയാളത്താൽ സൂചിപ്പിച്ചിരിക്കുന്നു നമ്മൾ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ക്യൂവിൽ നിന്ന് നീക്കം ചെയ്യുകയും അതിന്റെ അയൽക്കാരെ പര്യവേക്ഷണം ചെയ്യുകയുമാണ് നമ്മുടെ ആദ്യ പടി ഇപ്പോൾ അതിന്റെ അയൽക്കാർ 2 0 2 എന്നിവയാണ് ഈ ബ്രാക്കറ്റുകൾ ഇനി മുതൽ നമ്മൾ നീക്കംചെയ്യും കാരണം ഇത് കൂടുതൽ സങ്കീർണമാണ് നിങ്ങൾ ഇത് ഇതുപോലെ ചെയ്യുക എന്റെ ക്യൂവിൽ 2 കോമ 0 2 കോമ 2 എന്നിവ അടങ്ങിയിരിക്കുന്നുവെന്ന് നമ്മൾ പറയുന്നു പര്യവേക്ഷണം ചെയ്യാനുള്ള എന്റെ ക്യൂ വെർട്ടീസസ് ആണ് ഓരോ ഘട്ടത്തിലും ഞാൻ ക്യൂവിലെ ആദ്യ ഘടകം നീക്കംചെയ്യുകയും അതിന്റെ അയൽക്കാരെ പര്യവേക്ഷണം ചെയ്യുകയും ചെയ്യും 2 0 ന്റെ അയൽക്കാരെ ഞാൻ പര്യവേക്ഷണം ചെയ്യുമ്പോൾ അവയിലൊന്ന് തീർച്ചയായും ഞാൻ എവിടെ നിന്നാണോ ആരംഭിച്ചത് അതായിരിക്കുമെന്ന് ഞാൻ കണ്ടെത്തും അടയാളപ്പെടുത്താത്ത അയൽക്കാരെ മാത്രമാണ് ഞാൻ നോക്കുന്നത് അടയാളപ്പെടുത്താത്ത ഒരു അയൽക്കാരൻ 1 2 ആണ് ക്യൂവിന്റെ അവസാനം ഞാൻ അത് തിരികെ ചേർക്കും ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ക്യൂവിന്റെ അടുത്ത ഘടകം 2 2 എടുത്ത് അതിന്റെ അയൽക്കാരെ നോക്കും 2 2 ന് പഴയ കാര്യത്തിലേക്ക് വീണ്ടും പോകാം കൂടാതെ ഇവിടെ ഒരു പുതിയ കാര്യമുണ്ട് അത് 1 0 ആണ് ഇതുപോലെ തുടരുന്നതിലൂടെ ഞാൻ 1 2 നീക്കംചെയ്യുന്നു ഇത് ഇതാണ് തുടർന്ന് അയൽക്കാരെ നോക്കുക അതിന്റെ അയൽവാസികളിൽ ഒരാൾ 2 0 ആണ് എന്നാൽ അവയിലൊന്ന് 0 0 ആണ് എനിക്ക് ഒരു പുതിയ അയൽക്കാരനെ 0 0 ഇവിടെ ലഭിക്കുന്നു തുടർന്ന് 10 ക്യൂവിൽ എടുത്ത് ഞാൻ തുടരുന്നു 1 0 ഇതാണ് ഇപ്പോൾ പര്യവേക്ഷണം ചെയ്യപ്പെടാത്ത ഒരു പുതിയ അയൽവാസിയുണ്ട് എന്റെ ക്യൂവിന് ഇപ്പോൾ 0 0 ഉം അതിനുശേഷം 0 2 ഉം ഉണ്ട് എന്നിട്ട് ഞാൻ 0 0 പര്യവേക്ഷണം ചെയ്യുമ്പോൾ ഈ താഴെ ഉള്ള 2 2 ആണ് ലഭിക്കുന്നത് ഇപ്പോൾ ഞാൻ 0 2 നീക്കംചെയ്യുമ്പോൾ ഇത് ഇതാണ് ഈ രണ്ടു അയൽക്കാർ ഞാൻ ഒരിക്കൽ നോക്കിയതാണ് എന്ന് മനസിലായി അതുകൊണ്ടു ഞാൻ ഒന്നും ചേർക്കുന്നില്ല ഞാൻ 2 1 ൽ തുടരുന്നു വീണ്ടും അതിന്റെ അയൽക്കാർ പര്യവേക്ഷണം ചെയ്തതായി ഞാൻ കാണുന്നു ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ ഈ സമയത്ത് ക്യൂ ശൂന്യമാണ് ക്യൂ ശൂന്യമായതിനാൽ ഞാൻ നിർത്തുന്നു എന്റെ ലക്ഷ്യമായ ചതുരം 1 1 അടയാളപ്പെടുത്തിയിട്ടില്ലെന്ന് ഞാൻ കണ്ടെത്തി ഈ സാഹചര്യത്തിൽ ടാർഗെറ്റ് നോഡിലേക്ക് ഉറവിട നോഡിൽ നിന്ന് എത്തിച്ചേരാനാവില്ല ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ബ്രെഡ്ത് ഫസ്റ്റ് സെർച്ചിന്റെ ഒരു ഉദാഹരണമാണ് നിങ്ങൾ ഗ്രാഫുകൾ നോക്കൂ ഇത് ഒരു ക്യൂ എന്നാൽ വ്യവസ്ഥാപിതമായി ഒരു സെർച്ച് സ്പേസിലെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്തു സൂക്ഷിക്കാൻ ഒരു നല്ല മാർഗമാണ് എന്ന് ഇത് കാണിക്കുന്നു ചില സന്ദർഭങ്ങളിൽ കാര്യക്ഷമമായ പ്രോസസ്സിംഗ് ഉപയോഗിച്ച് വിവരങ്ങൾ ഓർഗനൈസുചെയ്യുന്നതിനുള്ള മാർഗങ്ങളാണ് ഡാറ്റ സ്ട്രക്ച്ചഴ്സ് എന്നാണ് ഇവിടെ സംഗ്രഹിക്കുന്നത് പൈത്തണിന് ബിൽട്ട് ഇൻ സെറ്റുകളുടെ ലിസ്റ്റുകൾ ഉണ്ടെന്നു നമ്മൾ കണ്ടു പകരം നമുക്ക് സീക്വൻസുകൾ എടുത്ത് അവയെ രണ്ട് ഘടനാപരമായ രീതിയിൽ ഉപയോഗിക്കാമെന്നും നമ്മൾ കണ്ടു സ്റ്റാക്ക് ഒരു ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ലിസ്റ്റാണ് കൂടാതെ ആവർത്തന കണക്കുകൂട്ടലുകളുടെ ട്രാക്ക് സൂക്ഷിക്കാൻ നമുക്ക് ഇത് ഉപയോഗിക്കാം കൂടാതെ ബ്രെഡ്ത് ഫസ്റ്റ് പര്യവേക്ഷണത്തിന് ഉപയോഗപ്രദമാകുന്ന ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ലിസ്റ്റാണ് ക്യൂ